മുൻ പ്രഭാഷണത്തിലെ IEEE 802 4 നിലവാരവും ഈ പ്രത്യേക മാനദണ്ഡമായ ZigBee വയർലെസ് ഹാർട്ട് ZigBee എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യസ്ത പ്രോട്ടോക്കോളുകളും നമ്മൾ കടന്നുപോയി ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ വളരെ പ്രചാരമുള്ള ഒരു സാങ്കേതികവിദ്യ നോക്കുന്നു അടിസ്ഥാനപരമായി Z വേവ് ഹോം ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകിച്ചും പ്രോട്ടോക്കോൾ ഉപയോഗപ്രദമാണ് IEEE 802 4 കുറഞ്ഞ പവർ ആവശ്യമുള്ള റേഡിയോ ആശയവിനിമയ ആവശ്യകതകളുള്ള ആശയവിനിമയ സാങ്കേതികവിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹോം ഓട്ടോമേഷൻ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്നതിന് ഹോം ഓട്ടോമേഷൻ ഇപ്പോൾ വളരെ പ്രധാനമാണ് വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്ക് പോലും ഈ പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും ZigBee ൽ നിന്ന് വ്യത്യസ്തമായി Z വേവ് ലളിതവും വിലകുറഞ്ഞതുമാണ് ഇത് ചെറുതും ഇടത്തരവുമായ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നു യുഎസിലെ പോലെ ISM ബാൻഡിലാണ് Z വേവ് പ്രവർത്തിക്കുന്നത് ഇത് പ്രത്യേകിച്ചും 908 42 മെഗാഹെർട്സ് ബാൻഡ് ആണ് യൂറോപ്പിൽ ഇത് 868 42 മെഗാഹെർട്സ് ബാൻഡാണ് ഇത് Wi Fi ബ്ലൂടൂത്ത് മറ്റ് പലതും ഉപയോഗിക്കുന്ന 2 4 ഗിഗാഹെർട്സ് ബാൻഡിന്റെ ഇടപെടൽ ഒഴിവാക്കുന്നു പ്രോട്ടോക്കോളുകളും മാനദണ്ഡങ്ങളും ഉപകരണങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ Z വേവ് ഒരു മെഷ് നെറ്റ്വർക്ക് ടോപ്പോളജി ഉപയോഗിക്കുന്നു ഒരു നെറ്റ്വർക്കിലെ 232 നോഡുകൾ വരെ പിന്തുണയ്ക്കുന്നു ഹോം ഓട്ടോമേഷൻ ആപ്ലിക്കേഷന് ഇത് തികച്ചും പര്യാപ്തമാണ് വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്ക് പോലും Z വേവ് 232 നോഡുകളെ പിന്തുണയ്ക്കുന്നു അതിനാൽ Z വേവ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം നമുക്ക് പറയാം നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്വീകരണമുറി രണ്ട് കിടപ്പുമുറികൾ ഒരു ഡൈനിംഗ് റൂം എന്നിവയുള്ള ഒരു വീടിനെക്കുറിച്ചാണ് ഹോം ഓട്ടോമേഷനിൽ Z വേവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് Z വേവ് കൺട്രോളർ എന്നറിയപ്പെടുന്ന ഉപകരണം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അത് മുഴുവൻ വീട്ടിലും ഒരൊറ്റ കൺട്രോളർ ഉപകരണമാകാം വ്യത്യസ്ത മുറികളിൽ വ്യത്യസ്ത ഇസഡ് വേവ് അനുസരണമുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം ഇവ Z വേവ് ആശയവിനിമയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ Z വേവ് നോഡുകൾ എന്നറിയപ്പെടുന്ന Z വേവ് നോഡുകൾ പോലെയാണ് മുഴുവൻ വീട്ടിലും ഒരു Z വേവ് കൺട്രോളറും വ്യത്യസ്ത മുറികളിലെ ഒന്നിലധികം Z വേവ് നോഡുകളും ഏകദേശം 127 അല്ലെങ്കിൽ 128 Z വേവ് നോഡുകളും ഒരൊറ്റ കൺട്രോളർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ കഴിയും കൺട്രോളർ നോഡും സ്ലേവ് നോഡും നെറ്റ്വർക്കിലെ സ്ലേവ് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിലധികം അദ്വിതീയ നോഡ് ഐഡികൾ എന്നിവയുണ്ട് നെറ്റ്വർക്ക് ഐഡി 4 ബൈറ്റുകളുടെ ദൈർഘ്യമുള്ളതാണ് ഈ ഓരോ നോഡ് ഐഡികളും 1 ബൈറ്റിന്റെ ദൈർഘ്യമുള്ളതായിരിക്കും നോഡുകൾക്ക് അവരുടെ ഹോം നെറ്റ്വർക്കിൽ മാത്രമേ ആശയവിനിമയം നടത്താൻ കഴിയൂ പിന്തുണയ്ക്കുന്ന ഡാറ്റ നിരക്ക് ഏകദേശം 30 മീറ്റർ വരെയാണ് ഏകദേശം 100 കെബിപിഎസ് വരെയാണ് ഡാറ്റ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഗാർഹിക ഓട്ടോമേഷൻ ആപ്ലിക്കേഷനുകൾക്കും ചെറുകിട വ്യവസായ ആപ്ലിക്കേഷനുകൾക്കും 30 മീറ്റർ പരിധിയിലുള്ള 100 കെബിപിഎസ് മതി അതിനാൽ Z വേവ് വളരെ ജനപ്രിയമായ ഒരു സാങ്കേതികവിദ്യയാണ് സിഗ്ബിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറഞ്ഞ ചിലവും ലളിതമായ സാങ്കേതികവിദ്യയുമാണ് കൂടാതെ വ്യത്യസ്ത ഗാർഹിക വ്യാവസായിക ഓട്ടോമേഷൻ ആപ്ലിക്കേഷനുകളെ പിന്തുണയ്ക്കാൻ ഇത് ഉപയോഗിക്കാം ഉപയോഗിച്ച റൂട്ടിംഗ് സ്കീം ആണ് സോഴ്സ് റൂട്ടിംഗ് എന്നാൽ ഒരു സോഴ്സ് നോഡ് അയയ്ക്കുകയും നെറ്റ്വർക്കിലെ റൂട്ട് നിർണ്ണയിക്കുകയും തുടർന്ന് റൂട്ടുകൾ ഉപയോഗിച്ച് സോഴ്സ് നോഡിൽ നിന്ന് മുഴുവൻ നെറ്റ്വർക്കിലേക്കും പാക്കറ്റ് അയയ്ക്കുകയും ചെയ്യുന്നു Z വേവ് അതിന്റെ സോഴ്സ് റൂട്ട് ചെയ്ത നെറ്റ്വർക്ക് ടോപ്പോളജി കാരണം നെറ്റ്വർക്കിലെ സ്റ്റാറ്റിക് ഉപകരണങ്ങൾ മാത്രം പരിഗണിക്കുന്നു അതിനാൽ ഇന്റീരിയർ ലേഔട്ടും മറ്റ് വീട്ടുപകരണങ്ങളും കാരണം എന്തെങ്കിലും തടസ്സമുണ്ടായാൽ സന്ദേശങ്ങൾ Z വേവിലെ വ്യത്യസ്ത നോഡുകളിലൂടെ വഴിതിരിച്ചുവിടുന്നു ഈ തടസ്സങ്ങൾ റേഡിയോ ഡെഡ് സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നു കൂടാതെ ഇസഡ് വേവ് എന്ന പ്രക്രിയ ഉപയോഗിച്ച് ഹീലിങ് എന്നറിയപ്പെടുന്ന ഇവയെ മറികടക്കാൻ കഴിയും ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകൾ ഹോം ഓഫീസ് ഓട്ടോമേഷൻ ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് എനർജി മാനേജ്മെന്റ് ആപ്ലിക്കേഷനുകൾ ഹോം സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ആപ്ലിക്കേഷനുകൾ വോയ്സ് കൺട്രോൾ പ്രാപ്തമാക്കിയ ആപ്ലിക്കേഷനുകൾ അപ്ലയൻസ് ഓട്ടോമേഷൻ കൺട്രോൾ എന്നിവയാണ് ഇപ്പോൾ നമുക്ക് ISA 100 11a എന്നറിയപ്പെടുന്ന വളരെ രസകരവും ജനപ്രിയവുമായ മറ്റൊരു മാനദണ്ഡം നോക്കാം അത് ISA 100 11 പരമ്പരയിൽ പെടുന്നു ഇത് വയർലെസ് നെറ്റ്വർക്ക് സാങ്കേതികവിദ്യയ്ക്കായി ഉപയോഗിക്കുന്നു ഇത് ഓട്ടോമേഷനായി അന്താരാഷ്ട്ര സമൂഹം വികസിപ്പിച്ചെടുത്തു അതിനാൽ ഈ മാനദണ്ഡം പ്രധാനമായും വ്യാവസായിക ചുറ്റുപാടുകളിലെ ഓട്ടോമേഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വ്യക്തമായും ഈ മാനദണ്ഡം 802 4 അടിസ്ഥാനമാക്കിയുള്ളതാണ് 11a ISA നിലവാരത്തിന്റെ ചില സവിശേഷതകൾ സ്ലൈഡുകളിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തേത് ഒരു പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഉപകരണങ്ങളെ ഒരു നെറ്റ്വർക്കിൽ ഒരേസമയം സംവദിക്കുന്നതിന് ഇത് പിന്തുണയ്ക്കുന്നു എന്നതാണ് വിവിധ ഏജന്റുകളും ഉപകരണങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനവും ആശയവിനിമയവും പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു നല്ല പ്രോട്ടോക്കോൾ ഇത് IPv6 അധിഷ്ഠിത സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും വർദ്ധിച്ച വിലാസ സ്ഥലവും സുരക്ഷയും പോലുള്ള അനുബന്ധ ആനുകൂല്യങ്ങൾ ചേർക്കുകയും ചെയ്യുന്നു 128 ബിറ്റുകളിലധികം സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന AES എൻക്രിപ്ഷനാണ് എൻക്രിപ്ഷൻ സ്കീം ഉപയോഗിക്കുന്നത് ഈ സാങ്കേതികവിദ്യയുടെ വ്യത്യസ്ത സവിശേഷതകൾ കാരണം വ്യാവസായിക പ്രയോഗങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് അളക്കാവുന്നതും വിശ്വസനീയവുമായ പരിഹാരങ്ങളെ പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക് ടോപ്പോളജികൾ സ്റ്റാറും മെഷുമാണ് ഉപയോഗിച്ചിരിക്കുന്ന MAC പ്രോട്ടോക്കോളുകൾ TDMA അല്ലെങ്കിൽ CSMACA അടിസ്ഥാനമാക്കിയുള്ള MAC പ്രോട്ടോക്കോൾ ആണ് വലിയ തോതിലുള്ള സങ്കീർണ്ണ വ്യവസായങ്ങളിൽ ഓട്ടോമേഷൻ വ്യാവസായിക നെറ്റ്വർക്കുകളുടെയും ഉപകരണങ്ങളുടെയും വയർലെസ് നിരീക്ഷണം വ്യാവസായിക പരിതസ്ഥിതികളിൽ വലിയതും സങ്കീർണ്ണവുമായ സജ്ജീകരണങ്ങളുള്ള പ്രക്രിയ നിരീക്ഷണം നിയന്ത്രണ ഓട്ടോമേഷൻ എന്നിവയാണ് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ബ്ലൂടൂത്ത് ആയ IoT നടപ്പിലാക്കുന്നതിനായി വളരെ രസകരമായ മറ്റൊരു ജനപ്രിയ സാങ്കേതികവിദ്യയിലേക്ക് വരാം ഒരു പ്രത്യേക കമ്പ്യൂട്ടർ ഹെഡ്ഫോണുകൾ മൊബൈൽ ഫോണുകൾ എന്നിവയുടെ വ്യത്യസ്ത പെരിഫറലുകളുടെ വയർലെസ് നെറ്റ്വർക്ക് സജ്ജീകരിക്കുന്നതിന് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നു IoT അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്കുകളും നെറ്റ്വർക്ക് സിസ്റ്റങ്ങളും സജ്ജമാക്കാൻ സഹായിക്കുന്ന വ്യാപകമായി ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഹ്രസ്വ ശ്രേണിയിൽ വയർലെസ് ആശയവിനിമയം വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത സിഗ്ബീയിൽ നിന്ന് വ്യത്യസ്തമായി ഇടത്തരം ശ്രേണിയിലുള്ള ആശയവിനിമയത്തിന് നല്ലതാണ് എന്നിരുന്നാലും ZigBee നല്ല ഡാറ്റ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നില്ല നേരെമറിച്ച് സിഗ്ബിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്ലൂടൂത്ത് മികച്ച ഡാറ്റ നിരക്കുകൾ കൂടുതൽ മെച്ചപ്പെട്ട ഡാറ്റ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഒരു കൈമാറ്റമുണ്ട് കേബിളുകൾ മാറ്റിസ്ഥാപിക്കാൻ ബ്ലൂടൂത്ത് പ്രത്യേകമായി ലക്ഷ്യമിടുന്നു അതിനാൽ ഞാൻ ഇവിടെ കടന്നുപോകാത്ത ഒരു കേബിൾ മാറ്റിസ്ഥാപിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ട് നിങ്ങൾ ബ്ലൂടൂത്ത് പ്രോട്ടോക്കോൾ സ്റ്റാക്ക് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് പിന്തുണയ്ക്കുന്ന ഒരു കേബിൾ മാറ്റിസ്ഥാപിക്കൽ പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് നിങ്ങൾ കാണും അതിനാൽ ഈ വ്യത്യസ്ത വയർലെസ് പോർട്ടബിൾ ഉപകരണങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് ഈ കേബിൾ മാറ്റിസ്ഥാപിക്കൽ പ്രോട്ടോക്കോൾ സഹായിക്കും കേന്ദ്രീകൃത കൺട്രോളർ ഇല്ലാത്ത അഡ് ഹോക്ക് നെറ്റ്വർക്കുകൾ രൂപീകരിക്കാൻ ബ്ലൂടൂത്ത് സഹായിക്കുന്നു ഈ ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഹ്രസ്വ ശ്രേണിയിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയും ചിതറിക്കിടക്കുന്ന വലകൾ എന്ന് വിളിക്കപ്പെടുന്ന Piconet എന്ന ആശയം ഉണ്ട് ഒരു സെല്ലുലാർ നെറ്റ്വർക്കിലെ സെല്ലുകളോട് വളരെ സാമ്യമുള്ള ഒരു പ്രത്യേക പിക്കോണറ്റിൽ ഉള്ളിൽ ഉണ്ട് ഒരു പിക്കോണറ്റിൽ മാസ്റ്ററും ഏകദേശം 7 ഉപകരണങ്ങളും വരെ ഉണ്ട് ഒരു പിക്കോണറ്റിനുള്ളിൽ 8 ഉപകരണങ്ങൾ പിന്തുണയ്ക്കാൻ കഴിയും വ്യത്യസ്ത അടിമ ഉപകരണങ്ങൾ ഉണ്ട് 7 ഉപകരണങ്ങൾ വരെ മാസ്റ്ററുമായി ബന്ധിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് Piconet 1 Piconet 2 എന്നിവയ്ക്ക് വ്യത്യസ്തമായ Piconets ഉണ്ടായിരിക്കാം അവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് സ്കാറ്റർ വല രൂപപ്പെടുത്തുന്നു കുറഞ്ഞ ചെലവിൽ വയർലെസ് ആശയവിനിമയം കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം എന്നിവ ബ്ലൂടൂത്ത് വാഗ്ദാനം ചെയ്യുന്നു വൈദ്യുതി ഉപഭോഗം കുറവായതിനാൽ IoT ആപ്ലിക്കേഷനുകളിൽ ബ്ലൂടൂത്ത് ആകർഷകമാണ് അവ സാധാരണയായി പവർ ആൻഡ് എനർജി സ്റ്റാർവ്ഡ് എന്നിവയാണ് ഇത് ISM 2 4 മുതൽ 2 484 gigahertz 2 4 മുതൽ 2 484 gigahertz ബാൻഡിൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന ബ്ലൂടൂത്തിന്റെ പതിപ്പിനെ ആശ്രയിച്ച് 1 Mbps മുതൽ 3 Mbps വരെ ഡാറ്റ നിരക്ക് ഇത് പിന്തുണയ്ക്കുന്നു 1 2 പതിപ്പിൽ 1 Mbps പതിപ്പ് 2 ന് 2 Mbps 3 Mbps ക്ലാസ് 3 റേഡിയോകൾക്ക് 1 മീറ്റർ ക്ലാസ് 2 റേഡിയോകൾക്ക് 10 മീറ്റർ ക്ലാസ് 1 റേഡിയോകൾക്ക് 100 മീറ്റർ എന്നിവയാണ് പ്രവർത്തന പരിധി അതിനാൽ വ്യത്യസ്ത റേഡിയോകൾ ബ്ലൂടൂത്തിന്റെ വ്യത്യസ്ത ആശയവിനിമയ ശ്രേണി നൽകും ബ്ലൂടൂത്ത് ഉപയോഗിക്കാൻ അനുയോജ്യമായ ആപ്ലിക്കേഷൻ നെറ്റ്വർക്കുകളോ ആശയവിനിമയ ശ്രേണിയുടെ ചെറിയ ദൂരമുള്ള ഉപകരണങ്ങളോ ആണ് അതിനാൽ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് പെരിഫറലുകൾ എന്നിവയുമായുള്ള കണക്റ്റിവിറ്റി ബ്ലൂടൂത്തിന്റെ സഹായത്തോടെ പിന്തുണയ്ക്കാൻ കഴിയും ഉപകരണങ്ങൾ തമ്മിലുള്ള മൾട്ടിമീഡിയ ട്രാൻസ്ഫർ ബ്ലൂടൂത്തിന്റെ വളരെ ആകർഷകമായതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഒരു ആപ്ലിക്കേഷനാണ് മൾട്ടിമീഡിയ നാവിഗേഷൻ ഡിവൈസുകളായ ജിപിഎസ് ഡിവൈസുകളുമായി ബന്ധിപ്പിക്കുന്നതിന് ഓട്ടോമൊബൈലുകൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കും RFID കൾ വളരെ ആകർഷകമാണ് ജനപ്രിയമായി ഉപയോഗിക്കുന്നു ഷോപ്പിംഗ് മാളുകളിലും RFID ടാഗുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് RFID ടാഗുകൾ വസ്ത്രങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ വിൽപ്പനയ്ക്കുള്ള മറ്റ് ഇനങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ RFID ടാഗുകളിൽ നിന്ന് RFID റീഡർ വായിക്കാനാകും ഇങ്ങനെയാണ് RFID പ്രവർത്തിക്കുന്നത് RFID അടിസ്ഥാനപരമായി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷനാണ് 3 ഘടകങ്ങളുണ്ട് ഒന്ന് ടാഗ് തന്നെയാണ് വ്യത്യസ്ത കാര്യങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന RFID ടാഗ് ടാഗിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന RFID റീഡർ ഈ മുഴുവൻ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്ന RFID സോഫ്റ്റ്വെയർ RFID റീഡർ വായിക്കുന്ന ഡിജിറ്റൽ എൻകോഡ് ചെയ്ത ഡാറ്റ RFID ടാഗ് സംഭരിക്കുന്നു പരമ്പരാഗത ബാർ കോഡുകൾ അല്ലെങ്കിൽ പതിവായി ഉപയോഗിക്കുന്ന ക്യുആർ കോഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആർഎഫ്ഐഡി ടാഗ് ഡാറ്റ കാഴ്ചയ്ക്ക് പുറത്ത് വായിക്കാൻ കഴിയും RFID ടാഗിൽ സംയോജിത സർക്യൂട്ടും ആന്റിനയും അടങ്ങിയിരിക്കുന്നു അവ ഒരു സംരക്ഷിത മെറ്റീരിയൽ കൊണ്ട് മൂടിയിരിക്കുന്നു RFID ടാഗുകളെ നിഷ്ക്രിയ ടാഗുകൾ അല്ലെങ്കിൽ സജീവ ടാഗുകൾ എന്നിങ്ങനെ തരം തിരിക്കാം പ്രവർത്തനത്തിനും ഡാറ്റ കൈമാറ്റത്തിനും സ്വന്തമായി പവർ സപ്ലൈ ഉള്ളവയാണ് ആക്റ്റീവ് ടാഗുകൾ നിഷ്ക്രിയ ടാഗുകൾ ഇല്ലാത്തവയാണ് ഡാറ്റ കൈമാറുന്നതിന് ഇവയെ പ്രേരണയോടെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ആർഎഫ്ഐഡികളുടെ ഉപയോഗത്തിനുള്ള ആപ്ലിക്കേഷനുകൾ സംഭരണം ഉൽപ്പന്ന ട്രാക്കിംഗ് സ്റ്റോർ ഉൽപ്പന്ന ട്രാക്കിംഗ് അസറ്റ് ബാഗേജ് ട്രാക്കിംഗ് സപ്ലൈ ചെയിൻ മാനേജുമെന്റ് ലൈവ്സ്റ്റോക്ക് ട്രാക്കിംഗ് മാനേജുമെന്റ് ഓട്ടോ മൊബൈൽ ട്രാക്കിംഗ് ആക്സസ് നിയന്ത്രണം എന്നിവയാണ് എൻഎഫ്സി സാങ്കേതികവിദ്യയും സമാനമായി പ്രവർത്തിക്കുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഈ എൻഎഫ്സി സാങ്കേതികവിദ്യ ആർഎഫ്ഐഡികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ആർഎഫ്ഐഡികളിൽ നിന്ന് വ്യത്യസ്തമായി എൻഎഫ്സികൾ ഉപകരണങ്ങൾക്കിടയിൽ യാതൊരു ശാരീരിക ബന്ധവുമില്ലാതെ ഏത് ശാരീരികവുമായും വളരെ അടുത്തായി പ്രവർത്തിക്കും ആർഎഫ്ഐഡി റീഡറിനും ടാഗിനും അൽപ്പം വേർതിരിക്കാനാകും പക്ഷേ എൻഎഫ്സി ഉപകരണങ്ങൾ വളരെ അടുത്തായി സൂക്ഷിക്കേണ്ടതുണ്ട് NFC ഉപകരണം രണ്ട് തരത്തിലാകാം സജീവമായ ഉപകരണം അല്ലെങ്കിൽ നിഷ്ക്രിയ ഉപകരണം ഒരു സജീവ തരം ഉപകരണത്തിന് ഡാറ്റ വായിക്കാനും കൈമാറാനും കഴിയും കൂടാതെ ഒരു നിഷ്ക്രിയ ഉപകരണത്തിന് ഡാറ്റ കൈമാറാൻ മാത്രമേ കഴിയൂ പക്ഷേ NFC ഉപകരണങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയില്ല അതിനാൽ സജീവവും നിഷ്ക്രിയവുമായ ഉപകരണ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണിത് NFC 13 56 MHz ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കുന്നു NFC യിലെ ആശയവിനിമയ ശ്രേണി 10 സെന്റിമീറ്ററിൽ താഴെയാണ് ഈ ഉപകരണങ്ങളിലൊന്നിൽ നിങ്ങളുടെ പക്കൽ D1 NFC ഉപകരണം ഉണ്ടെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് മറ്റൊരു ഉപകരണം ഉണ്ട് D2 കാന്തികക്ഷേത്രം സൃഷ്ടിക്കപ്പെടും അങ്ങനെ D1 D2 എന്നിവ പരസ്പരം 10 സെന്റിമീറ്ററിൽ താഴെ അകലെ സൂക്ഷിക്കുന്നു NFC വിവിധ ഡാറ്റ നിരക്കുകൾ പിന്തുണയ്ക്കുന്നു 106 212 അല്ലെങ്കിൽ 424 kbps രണ്ട് ഉപകരണങ്ങൾക്കിടയിൽ പിന്തുണയ്ക്കുന്ന രണ്ട് ആശയവിനിമയ മോഡുകൾ ഒന്ന് സജീവ സജീവമാണ് മറ്റൊന്ന് സജീവ നിഷ്ക്രിയ മോഡ് ചരക്കുകൾ ബാങ്കിംഗ് മേഖല എൻഎഫ്സി പ്രവർത്തനക്ഷമമാക്കിയ സ്മാർട്ട്ഫോണുകൾ എൻഎഫ്സി ഉപയോഗിക്കുന്ന സ്മാർട്ട്ഫോണുകൾ തമ്മിലുള്ള ഡാറ്റ ആശയവിനിമയം സുരക്ഷ പ്രാമാണീകരണം ലോ പവർ ഹോം ഓട്ടോമേഷൻ സംവിധാനങ്ങൾ എന്നിവയോട് എൻഎഫ്സിയുടെ ആപ്ലിക്കേഷനുകൾ വളരെ സാമ്യമുള്ളതാണ് അതിനാൽ ഈ കാര്യത്തിന് ഒരു അന്ത്യത്തിലെത്തി മുമ്പത്തെ പ്രഭാഷണത്തിൽ വ്യത്യസ്ത കണക്റ്റിവിറ്റി സാങ്കേതികവിദ്യകളിലൂടെ കടന്നുപോയി ഇത് IEEE 802 15 4 നിലവാരത്തിലൂടെ കടന്നുപോയി പിന്നെ ZigBee Z വേവ് ISA RFID NFC വയർലെസ് ഹാർട്ട് എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്തു നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാൻ കഴിയുന്ന ഈ പരാമർശങ്ങളിൽ ചിലത് ഇവയാണ് അതിനാൽ ഇതോടെ അവസാനിക്കുന്നു